ലോജിസ്റ്റിക് റിഗ്രെഷൻ ഇമ്പ്ലിമെന്റേഷൻ ഇൻ R R ലെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇമ്പ്ലിമെൻറ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ലെക്ച്ചറിലേക്ക് സ്വാഗതം ഈ ലെക്ച്ചറിൽ നമ്മൾ ഒരു കേസ് പഠനവും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റും നോക്കാൻ പോകുന്നു R ഉപയോഗിച്ച് കേസ് സ്റ്റഡി പരിഹരിക്കാനും ഇതിന്റെ ഭാഗമായി ഒരു CSV le യിൽ നിന്ന് ഡാറ്റ എങ്ങനെ വായിക്കാം ഡാറ്റ എങ്ങനെ മനസ്സിലാക്കാം റിസൾട്ടുകൾ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നിവ നമ്മൾ നോക്കാൻ പോകുന്നു പ്രൊഫസർ രഘുവിന്റെ മുൻ പ്രഭാഷണത്തിൽ നിന്ന് ചില പ്രധാന കാര്യങ്ങൾ നോക്കാം ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു ക്ലാസ്സിഫിക്കേഷൻ ടെക്നിക് ആണെന്നും അത് സൂപ്പർവൈസ്ഡ് പഠന അൽഗോരിതം ആണെന്നും നമുക്കറിയാം സൂപ്പർവൈസ്ഡ് എന്നതുകൊണ്ട് ഡാറ്റ ലേബൽ ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ഒരു പാരാമെട്രിക് സമീപനം കൂടിയാണ് കാരണം അൽഗോരിതം പ്രയോഗത്തിന്റെ അവസാനം നമ്മൾ അതിൽ നിന്ന് പാരാമീറ്ററുകൾ പുറത്തെടുക്കാൻ പോകുന്നു പ്രോബബിലിറ്റി വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഡിസിഷൻ ബൌണ്ടറി ഉരുത്തിരിഞ്ഞത് അത് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ആകാം പ്രോബബിലിറ്റികൾ ഒരു സിഗ്മോയ്ഡൽ ഫംഗ്ഷനായി രൂപപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കാം ഈ ആശയം ചിത്രീകരിക്കാൻ നമ്മൾ ഒരു ഓട്ടോമോട്ടീവ് ക്രാഷ് ടെസ്റ്റിംഗ് കേസ് ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ വിവിധ കാറുകൾക്ക് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ നടത്തുന്ന ഡിസ്ട്രക്റ്റീവ് പരിശോധനയുടെ ഒരു രൂപമാണ് ക്രാഷ് ടെസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് അതിനാൽ നിരവധി കാറുകൾ ക്രാഷ് ടെസ്റ്റുകൾക്കായി ഒരു സ്വതന്ത്ര ഓഡിറ്റ് യൂണിറ്റിലേക്ക് ഉരുട്ടി കൊണ്ടുവരുന്നു അവ മോശം എന്നതിൽ നിന്ന് മികച്ചത് എന്നരീതിയിൽ നിർവചിക്കപ്പെട്ട സ്കെയിലിൽ വിലയിരുത്തപ്പെടുന്നു 10 എന്നാൽ മോശവും 10 എന്നാൽ മികച്ചതുമാണ് അതിനാൽ 10 മുതൽ 10 വരെയാണ് സ്കെയിൽ ഉള്ളത് കൂടാതെ അവ കുറച്ച് പരാമീറ്ററുകൾ ഉപയോഗിച്ച് വിലയിരുത്തപ്പെടുന്നു അതിനാൽ അവ വിലയിരുത്തിയ പാരാമീറ്ററുകൾ നമുക്ക് നോക്കാം അതിനാൽ കാറിന്റെ ഹെഡ് തകരുന്നതിനാൽ ഇവിടെ എനിക്ക് മാനിക്കിൻ ഹെഡ് ഇംപാക്റ്റ് ഉണ്ട് മാനിക്കിൻ ബോഡി ഇംപാക്റ്റ് എന്നാൽ കാറിന്റെ ബോഡിയിലെ ഇംപാക്റ്റ് ഇന്റീരിയർ ഇംപാക്റ്റ് ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷനിംഗ് ഇംപാക്റ്റ് സുരക്ഷാ അലാറം സിസ്റ്റം എന്നിവയൊക്കെയാണ് ഇപ്പോൾ ഓരോ ക്രാഷ് ടെസ്റ്റും നടത്തുക എന്നത് വളരെ ചെലവേറിയതാണ് അതിനാൽ കമ്പനി 100 കാറുകൾക്ക് മാത്രമാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് ക്രാഷ് ടെസ്റ്റിന്റെ അവസാനം കാറിന്റെ ടൈപ്പ് നോട്ട് ചെയ്യുന്നു അതിനാൽ ഇവിടെ ആ ടൈപ്പ് ഹാച്ച്ബാക്ക് അല്ലെങ്കിൽ എസ്യുവി ആണ് എന്നിരുന്നാലും ഓരോ തവണയും ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് വളരെ ചെലവേറിയതാണ് അതിനാൽ കമ്പനി ഈ ഡാറ്റ എടുത്ത് ഒരു മോഡൽ നിർമ്മിക്കാൻ പോകുന്നു ഈ മോഡൽ ഉപയോഗിച്ച് ഭാവിയിൽ കാറിന്റെ ടൈപ്പ് പ്രവചിക്കാൻ ഇതിന് കഴിയണം അതിനാൽ ഇതിനായി നമ്മൾ ഒരു മോഡൽ നിർമ്മിക്കുന്നതിനും പരിശീലനത്തിനുമായി ഡാറ്റയുടെ ഒരു ഭാഗം റിസർവ് ചെയ്യാൻ പോകുന്നു ബാക്കി ഡാറ്റ അനാലിസിസിനായി സൂക്ഷിക്കും അതിനാൽ ഇതിനായി നമുക്ക് ആകെ 100 കാറുകളുണ്ട് അതിൽ 80 കാറുകൾ ട്രെയിൻ ചെയ്യുന്നതിനായി എടുക്കാൻ പോകുന്നു ശേഷിക്കുന്ന 20 കാറുകൾ ടെസ്റ്റിനുവേണ്ടിയും എടുക്കാൻ പോകുന്നു അതിനാൽ 80 കാറുകൾ ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ 1 ഡോട്ട് csv എന്ന ഫയലിലും ബാക്കി 20 കാറുകൾ ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ 1 അണ്ടർസ്കോർ ടെസ്റ്റ് csv എന്ന ഫയലിലും നൽകിയിരിക്കുന്നു ഇപ്പോൾ കാർ ടൈപ്പ് ഒരു ഹാച്ച്ബാക്ക് അല്ലെങ്കിൽ എസ്യുവി ആയി തരംതിരിക്കുന്നതിന് നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ടെക്നിക് ഉപയോഗിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് പരിഹാര സമീപനം നോക്കാം അതിനാൽ മോഡലിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ തയ്യാറാക്കാം നമുക്ക് വർക്കിംഗ് ഡയറക്ടറി സജ്ജീകരിക്കുകയും വർക്ക്സ്പെയ്സിലെ വേരിയബിളുകൾ ക്ലിയർ ചെയ്യുകയും വേണം ആവശ്യമായ പാക്കേജുകളും ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ glm ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് അതിനാൽ ലോഡുചെയ്യുന്നതിന് നമുക്ക് പ്രത്യേക പാക്കേജുകളൊന്നും ആവശ്യമില്ല അതേസമയം കൺഫ്യൂഷൻ മാട്രിക്സ് ഉപയോഗിക്കുന്നതിന് എനിക്ക് ക്യാരറ്റ് എന്ന ഒരു പാക്കേജ് ആവശ്യമാണ് അത് ഞാൻ എന്റെ മോഡലിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ലോഡുചെയ്യാൻ പോകുന്നു നമ്മൾ ഇതിനകം പഠിച്ച ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് പരിസ്ഥിതിയിലെ എല്ലാ വേരിയബിളുകളും ഞാൻ മായ്ക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഡാറ്റ വായിക്കാം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കേസ് സ്റ്റഡിയുടെ ഡാറ്റ ഈ ഫയൽ നാമങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതിനാൽ ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ 1 ട്രെയിൻ ഡാറ്റയും ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ 1 അണ്ടർസ്കോർ ടെസ്റ്റ് ഡാറ്റയുമാണ് ഇപ്പോൾ ഒരു CSV ലെയിൽ നിന്നുള്ള ഡാറ്റ വായിക്കാൻ ഞങ്ങൾ CSV ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു എന്റെ മുൻ ലെക്ച്ചറിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ഒരു ഫയൽ ടേബിൾ ഫോർമാറ്റിൽ വായിക്കുകയും അതിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ അതിന്റെ സിന്റാക്സ് ഇൻപുട്ടുകൾക്ക് താഴെ നൽകിയിരിക്കുന്നു അവയാണ് le യും കോളം നെയിമും അതിനാൽ ഇപ്പോൾ നമുക്ക് ഡാറ്റ വായിക്കാം എന്റെ ലെയുടെ പേരിനോട് തുടർന്ന് ഞാനൊരു ഫങ്ക്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു അതാണ് read dot csv ഇപ്പോൾ ഈ കമാൻഡ് പ്രവർത്തിപ്പിച്ചുകഴിഞ്ഞാൽ അത് ഒരു ഡാറ്റ ഫ്രെയിമായ ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ 1 എന്ന ഒബ്ജക്റ്റിൽ സേവ് ചെയ്യാൻ പോകുന്നു അതുപോലെ മറ്റ് ഡാറ്റാ സെറ്റിനും ഞാൻ ഇത് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് മറ്റൊരു ഒബ്ജക്റ്റ് ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് ഡാറ്റ ഫ്രെയിമുകളും പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും ഇനി നമുക്ക് ഡാറ്റ നോക്കാം അതിനാൽ എന്റെ ഡാറ്റ ഫ്രെയിമിന്റെ പേരിനൊപ്പം വ്യൂ കമാൻഡ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഇത് ഇങ്ങനെയാണ് ദൃശ്യമാകുന്നത് നിങ്ങൾ ഒരിക്കൽ ഈ കമാൻഡ് പ്രവർത്തിപ്പിച്ചുകഴിഞ്ഞാൽ എല്ലാ വേരിയബിളുകളും മൂല്യങ്ങളും ഉള്ള ഒരു പ്രത്യേക ടാബ് ദൃശ്യമാകും ഇപ്പോൾ നമുക്ക് ഡാറ്റ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഡാറ്റാ സെറ്റ് ക്രാഷ് ടെസ്റ്റ് അണ്ടർസ്കോർ ഒന്നിൽ 6 വേരിയബിളുകളുടെ 80 നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ക്രാഷ് ടെസ്റ്റ് 1 അണ്ടർസ്കോർ TEST ൽ 6 വേരിയബിളുകളുടെ 20 നിരീക്ഷണങ്ങളും അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രാഷ് ടെസ്റ്റിന്റെ അവസാനം അളന്ന 5 വേരിയബിളുകൾ ഇവിടെയുണ്ട് ആദ്യത്തെ അഞ്ച് കോളങ്ങൾ കാറിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അവസാന കോളം എന്ന് പറയുന്നത് ലേബലുമാണ് എന്ന് ഡേറ്റയിൽനിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് കാറിന്റെ ടൈപ്പ് ഹാച്ച്ബാക്ക് അല്ലെങ്കിൽ എസ്യുവി ആണോയെന്ന് പറയുന്നു അതിനാൽ നമുക്ക് ഡാറ്റയുടെ ഘടന നോക്കാം ഘടന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേരിയബിളുകളും അവയുടെ അനുബന്ധ ഡാറ്റ ടൈപ്പുകളുമാണ് അതിനാൽ ഘടന എന്നത് പ്രതിനിധീകരിക്കുന്ന കമാൻഡ് str ആണ് ഇവിടെയുള്ള ഒബ്ജക്റ്റ് നമുക്ക് ഘടന നോക്കാൻ ആഗ്രഹിക്കുന്ന ഇൻപുട്ട് ഒബ്ജക്റ്റാണ് എന്നതിനാൽ എനിക്ക് അതിന് ഒരു ഒബ്ജക്റ്റ് നൽകേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ട്രെയിൻ ഡാറ്റയുടെ ഘടന നോക്കുകയാണെങ്കിൽ crashTest 1 എന്നത് 80 നിരീക്ഷണങ്ങളും 6 വേരിയബിളുകളും ഉള്ള ടൈപ്പ് ഡാറ്റാ ഫ്രെയിമാണെന്നും കൂടാതെ അഞ്ച് വേരിയബിളുകളും ന്യൂമെറിക് ആണെന്നും ക്ലാസ് വേരിയബിൾ കാർഡ് ടൈപ്പ് ലെവൽ എന്നത്ഹാച്ച്ബാക്കും എസ് വി യും ഉള്ള ഒരു ഘടകമാണെന്നും പറയുന്നു അതുപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് സെറ്റിന്റെ ഘടനയും നോക്കാം ഇപ്പോൾ നമുക്ക് ഡാറ്റയുടെ സംഗ്രഹം നോക്കാം കൂടാതെ ഡാറ്റയെക്കുറിച്ച് ഇത് എന്താണ് പറയുന്നതെന്നും നമുക്ക് നോക്കാം അതിനാൽ ഇൻപുട്ട് ഒരു ഡാറ്റ ഫ്രെയിമാണെങ്കിൽ ഇൻപുട്ട് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റിന് അനുബന്ധമായ സമ്മറി നൽകുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് സമ്മറിയാണ് ഇവിടുത്തെ സമ്മറി അതിനാൽ ഇതാണ് സിന്റാക്സ് അതിനാൽ ക്രാഷ്ടെസ്റ്റ് 1 എന്ന ട്രെയിൻ ഡാറ്റയുടെ സമ്മറി സ്നിപ്പെറ്റിൽ ചുവടെ നൽകിയിരിക്കുന്നു അതിനാൽ സംഖ്യാ വേരിയബിളുകൾക്ക് ഇത് ഏറ്റവും കുറഞ്ഞ ആദ്യ ക്വാർട്ടൈലും മീഡിയനും മീനും മൂന്നാം ക്വാർട്ടൈലും മാക്സിമം എന്നിവയുള്ള ഫൈവ് പോയിന്റ് സമ്മറിയാണ് ഇവിടെ കാറ്റഗറിക്കൽ വേരിയബിളിന് ഫാക്ടർ കാർടൈപ്പ് ആണ് അത് ഫ്രീക്വൻസി കൌണ്ട് നൽകുന്നു അതിനാൽ പരിശോധനയ്ക്കായി ഇത് വീണ്ടും സംഖ്യാ വേരിയബിളുകൾക്കായി ഫൈവ് പോയിന്റ് സമ്മറി നൽകുന്നു കൂടാതെ കാറിന്റെ ടൈപ്പിനായി അവിടെ ടൈപ്പ് ഹാച്ച്ബാക്കിന്റെ 10 കാറുകളും ടൈപ്പ് എസ്യുവിയുടെ 10 കാറുകളും ഉണ്ടെന്ന് ഇത് എന്നോട് പറയുന്നു അതിനാൽ ലോജിസ്റ്റിക് റിഗ്രഷനായി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ ആയ glm നോക്കാം അതിനാൽ glm എന്നത് സാമാന്യവൽക്കരിച്ച ലീനിയർ മോഡലിനെ സൂചിപ്പിക്കുന്നു അതിലേക്കുള്ള ഇൻപുട്ട് ഒരു ഫോർമുല ഡാറ്റ ഫാമിലി എന്നിവയാണ് അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലിന്റെ പ്രതീകാത്മക പ്രതിനിധാനമാണ് ഫോർമുല അതിനാൽ നമ്മുടെ കാര്യത്തിൽ അത് കാർ ടൈപ്പ് ആയി മാറുന്നു ഇത് ഒരു ക്ലാസാണ് ഡാറ്റ എന്നത് നിങ്ങളുടെ വേരിയബിളുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡാറ്റ ഫ്രെയിമാണ് നിങ്ങൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഫാമിലി എന്നത് ബെനോമിയലാണ് ഫംഗ്ഷനിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന മറ്റ് ഫാമിലികളും ഉണ്ട് എന്നാൽ നിങ്ങൾ ഫാമിലി ബൈനോമിയൽ എന്ന് എഴുതുകയാണെങ്കിൽ അത് ലോജിസ്റ്റിക് റിഗ്രഷനുമായി പ്രത്യേകമായി യോജിക്കുന്നു ഇനി നമുക്ക് ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ നിർമ്മിക്കാം ഇപ്പോൾ ഞാൻ glm ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു ഇവിടെയുള്ള ഫോർമുലയിൽ പറയുന്നത് ഡാറ്റ crashTest 1 ൽ നിന്ന് ഞങ്ങളുടെ ക്ലാസായ വേരിയബിൾ കാർ ടൈപ്പ് ഇവിടെ നേടുകയും അത് ആക്സസ് ചെയ്യാൻ ഞാൻ ഒരു ഡോളർ ചിഹ്നം ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ crashTest 1 എന്റെ ട്രെയിൻ ഡാറ്റയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി ബൈനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷനുമായി യോജിക്കുന്നു ഇപ്പോൾ crashTest 1 ൽ നിന്ന് വേരിയബിൾ കാർ ടൈപ്പ് ലഭിക്കും ഇപ്പോൾ ഞാൻ ഈ കമാൻഡ് പ്രവർത്തിപ്പിച്ചുകഴിഞ്ഞാൽ glm എന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കപ്പെടുന്നു അതിനെ ഞാൻ ലോജിസ്റ്റിക് എന്ന് വിളിക്കുന്നു അതിനാൽ പ്രൊഫസർ രഘുവിന്റെ ലെക്ച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റികളെ ഒരു സിഗ്മോയ്ഡൽ ഫംഗ്ഷനായി മാതൃകയാക്കുന്നു വലതുവശത്ത് എനിക്ക് ലോഗ് ഓഡ്സ് അനുപാതമുണ്ട് ഇത് ഹൈപ്പർപ്ലെയ്ൻ സമവാക്യം ഇതും ഡിസിഷൻ ബൌണ്ടറി ആണ് ഇവിടെ p 1 p എന്നത് ഓഡ്ഡ്സ് ആണ് ഇവിടെ p എന്നത് വിജയത്തിന്റെ പ്രോബബിലിറ്റിയാണ് 1 p എന്നത് പരാജയത്തിന്റെ സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ p എന്നത് കാർ ടൈപ്പ് ഒരു ഹാച്ച്ബാക്ക് ആകാനുള്ള സാധ്യതയാണ് കൂടാതെ 1 p എന്നത് കാർ ടൈപ്പ് എസ്യുവി ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇനി നമുക്ക് മാതൃക നോക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൺസോളിൽ മോഡൽ ലോജിസ്റ്റിക് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആദ്യ വരിയിൽ അത് ഫോർമുല പ്രദർശിപ്പിക്കുന്നു അടുത്ത വരിയിൽ അത് കോഎഫിഷ്യന്റ് പ്രദർശിപ്പിക്കുന്നു തുടർന്ന് എനിക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അതിനാൽ അത് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇന്റർസെപ്റ്റിനൊപ്പം മാത്രമുള്ള ഒരു നൾ മോഡൽ ഉള്ളപ്പോഴാണ് ഫ്രീഡത്തിന്റെ ആദ്യ ഡിഗ്രി രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് ഫ്രീഡം 74 ഉണ്ട് അതായത് എന്റെ മോഡലിംഗിൽ എല്ലാ വേരിയബിളുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഓരോ കോഎഫിഷിയെന്റുകളും വിശദമായി നോക്കാം അതിനാൽ ഞാൻ വീണ്ടും ലോജിസ്റ്റിക്സിന്റെ ഒരു സമ്മറി ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ ഇത് ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ചെയ്തതിന് സമാനമാണ് ഞങ്ങൾ ഉപയോഗിച്ച സൂത്രവാക്യം ആദ്യ വിഭാഗം നിങ്ങളോട് പറയുന്നു രണ്ടാമത്തെ വിഭാഗം ഒരു t യുടെ അളവും അതിനുള്ള 5 പോയിന്റ് സമ്മറിയും നിങ്ങളോട് പറയുന്നു എനിക്ക് കോഎഫിഷിയെന്റുകളായി അടുത്ത വിഭാഗം ഉണ്ട് അതിനാൽ ഇവയാണ് β̂ i കൾ ഇവിടെ i 0 മുതൽ 5 വരെ ഉണ്ട് ഇപ്പോൾ ഇന്റർസെപ്റ്റിന് ഇത് β̂0 ആണ് എനിക്ക് ഇവിടെ 4 കോളങ്ങളുണ്ട് എനിക്ക് എസ്റ്റിമേറ്റ് സ്റ്റാൻഡേർഡ് എറർ z മൂല്യം അനുബന്ധ പ്രോബബിലിറ്റി എന്നിവയുണ്ട് ഇപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഇൻപുട്ട് മൂല്യമായ പ്രെഡിക്റ്റർ മൂല്യത്തിൽ യൂണിറ്റ് വർദ്ധനയ്ക്കായി കോഎഫിഷിയെന്റുകൾ ഔട്ട്പുട്ടിന്റെ ലോഗ് ഓഡ്ഡുകൾക്ക് മാറ്റം നൽകുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോബബിലിറ്റി വളരെ വളരെ ഉയർന്നതും വേരിയബിളുകളൊന്നും തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രധാനാപെട്ടത് അല്ല എന്നും കാണാം നിങ്ങൾ അടുത്ത വിഭാഗത്തിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് നൾ ഡീവിയൻസ് റെസിഡ്യൂവൽ ഡീവിയൻസ് എന്നിങ്ങനെ വിളിക്കുന്ന ഒന്ന് ഉണ്ട് ഇന്റർസെപ്റ്റർ മാത്രം തെറ്റുമ്പോൾ നിങ്ങളുടെ മോഡലിന് ഉണ്ടാകുന്ന വ്യതിയാനമാണ് നൾ ഡീവിയൻസ് കൂടാതെ എല്ലാ നിബന്ധനകളും കണക്കിലെടുക്കുമ്പോൾ ശേഷിക്കുന്ന ഡീവിയൻസ് നിങ്ങളുടെ മോഡലിന്റെ ഡീവിയൻസാണ് അതിനാൽ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡംണ് നോക്കി അത് നൾ ആളാണോ കുറഞ്ഞ മോഡലാണോ അല്ലെങ്കിൽ പൂർണ്ണ മോഡലാണോ എന്ന് പറയാൻ കഴിയും അതിനാൽ റെഡ്യൂസ്ഡ് മോഡലിന് ഞാൻ ഇന്റർസെപ്റ്റർ മാത്രമേ എടുക്കൂ അതിനാൽ എന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആയി കുറഞ്ഞു അത് 80 1 79 ആയി അതേസമയം പൂർണ്ണ മോഡലിന് ഞാൻ എല്ലാ വേരിയബിളുകളും കണക്കിലെടുക്കുന്നു അതിനാൽ എനിക്ക് 80 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അത് 74 ആണ് അതിനാൽ എനിക്ക് ഫിഷർ സ്കോറിംഗ് ആവർത്തനം എന്ന് വിളിക്കുന്നു ഒന്ന് കൂടി ഉണ്ട് അതിനാൽ ഫിഷറിന്റെ സ്കോറിംഗ് പരമാവധി സാധ്യത കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ഇത് ന്യൂട്ടൺ റാഫ്സൺ രീതിയുടെ ഒരു ഡെറിവേറ്റീവ് ആണ് അതിനാൽ എടുത്ത ആവർത്തനങ്ങളുടെ എണ്ണം 25 ആണെന്ന് ഇത് നിങ്ങളോട് പറയുന്നു ഇനി നമുക്ക് സാധ്യതകൾ കണ്ടെത്താം സാധ്യതകൾ കണ്ടെത്താൻ നമ്മൾ പ്രവചിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു കൂടാതെ വാക്യഘടനയും പ്രവചിക്കപ്പെടുന്നു എന്റെ ഇൻപുട്ട് ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ് ഇപ്പോൾനമ്മളുടെ ഡാറ്റയ്ക്കായി ഞാൻ പ്രവചിക്കാൻ പോകുന്നു ഇവിടെ എന്റെ ഇൻപുട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലാണ് ഇപ്പോൾ ഞാൻ ഡാറ്റയൊന്നും നൽകിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ crashTest 1 ആയ ട്രെയിൻ സെറ്റിൽ അത് പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫംഗ്ഷൻ അനുമാനിക്കുന്നു ഇപ്പോൾ ടൈപ്പ് പ്രതികരണം എന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പ്രോബബിലിറ്റികളായി നൽകുന്നു എന്നാൽ നിങ്ങൾ ഇത് സൂചിപ്പിച്ചില്ലെങ്കിൽ ഡിഫോൾട്ടായി അത് നിങ്ങൾക്ക് ലോഗ് ഓഡ്സ് നൽകുന്നു ഇനി നമുക്ക് സാധ്യതകൾ പ്ലോട്ട് ചെയ്യാം അതിനാൽ നിങ്ങൾ കമാൻഡ് പ്രവർത്തിപ്പിച്ചതിന് ശേഷം ഞാൻ അത് ലോജിക് ട്രെയിനായി സേവ് ചെയ്തു പ്രോബബിലിറ്റികൾ പ്ലോട്ട് ചെയ്യാൻ ഞാൻ പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു എന്റെ വലതുവശത്ത് y അക്ഷത്തിൽ എനിക്ക് പ്ലോട്ടുണ്ട് എനിക്ക് പ്രോബബിലിറ്റികളുണ്ട് x അക്ഷത്തിൽ എനിക്ക് സൂചികയുണ്ട് അതിനാൽ ഈ പ്ലോട്ടിൽ നിന്ന് ക്ലാസുകൾ നന്നായി വേർതിരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ ഏത് സൈറ്റാണ് കാർ ഏത് തരത്തിൽ പെട്ടതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അതിനാൽ ഏത് തരത്തിലുള്ള കാർ ഏത് വശമാണ് എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനാൽ അത് ചെയ്യാൻ ഞാൻ പ്രോബബിലിറ്റികളുടെ ശരാശരി കണ്ടെത്താൻ പോകുന്നു രണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോബബിലിറ്റികൾ തിരിച്ചറിയാൻ ഇത് നമ്മളെ സഹായിക്കും ഞാൻ ഇപ്പോൾ t apply ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ ഇത് ഒരു മണി മുഴക്കണം R പ്രോഗ്രാമിംഗ് ലെക്ചറിന്റെ അടിസ്ഥാനകാര്യങ്ങളുടെ ആമുഖത്തിൽ നമ്മൾ ഇത് ചെയ്യും എന്നിട്ട് ഇവിടെ ഇത് ഞാൻ ലോജിക് ട്രെയിൻ ആയി തരുന്നു ഇപ്പോൾ ഞാൻ കാറിന്റെ ടൈപ്പ് അനുസരിച്ച് തരം തിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ crashTest 1കാർ ടൈപ്പ് നൽകാൻ പോകുന്നു ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഫംഗ്ഷൻ ശരാശരിയാണ് അതിനാൽ ഫംഗ്ഷനായി ഞാൻ mean നൽകുന്നു ഇപ്പോൾ നിങ്ങൾ കമാൻഡ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഓരോ കാർ ടൈപ്പുമായും ബന്ധപ്പെട്ട പ്രോബബിലിറ്റികൾ എനിക്കുണ്ട് ഹാച്ച്ബാക്കിന് ഇത് 2 85 മുതൽ 10 പവർ 10 വരെയാണ് ഇത് വളരെ വളരെ കുറവാണ് എന്നാൽ എസ്യുവിക്ക് ഇത് 1 ആണ് അതിനാൽ കുറഞ്ഞ പ്രോബബിലിറ്റികൾ കാർ ടൈപ്പ് ഹാച്ച്ബാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മോട് പറയുന്നു അതേസമയം ഉയർന്ന സാധ്യതകൾ കാർ ടൈപ്പ് എസ്യുവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡാറ്റയിൽ ഇത് പ്രവചിക്കാം ഞാൻ വീണ്ടും പ്രവചന ഫങ്ക്ഷൻ ഉപയോഗിക്കാൻ പോകുന്നു എന്റെ ഇൻപുട്ട് വീണ്ടും ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലാണ് ഇപ്പോൾ എന്റെ പുതിയ ഡാറ്റ ടെസ്റ്റ് ഡാറ്റയാണ് അതിനാൽ crashTest 1 TEST ആണ് ടെസ്റ്റ് സെറ്റ് ഇപ്പോൾ എനിക്ക് വീണ്ടും പ്രോബബിലിറ്റികൾ മാതൃകയാക്കാൻ താൽപ്പര്യമുള്ളതിനാൽ ഞാൻ ടൈപ്പ് റെസ്പോൺസ് എന്ന് നല്കാൻ പോകുന്നു ഇപ്പോൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ അത് ഒരു ഒബ്ജക്റ്റ് ലോജിസ്പ്രെഡ് ആയി സംഭരിക്കപ്പെടും ഇപ്പോൾ ഞാൻ ലോഗ്സ്പ്രെഡ് പ്ലോട്ട് ചെയ്യും അതിനാൽ ഞാൻ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ വലതുവശത്ത് പ്ലോട്ട് ഉണ്ട് വീണ്ടും എനിക്ക് എന്റെ y അക്ഷത്തിൽ പ്രോബബിലിറ്റിയുടെ പ്രവചിച്ച മൂല്യങ്ങളുണ്ട് കൂടാതെ x ൽ എനിക്ക് ഇൻഡക്സ് ഉണ്ടെന്ന് കാണാനും കഴിയും ഇപ്പോൾ ടെസ്റ്റ് സെറ്റിന് പോലും ക്ലാസുകൾ നന്നായി വേർതിരിച്ചിരിക്കുന്നു ഇവിടെ വീഴുന്ന പോയിന്റുകൾ ഹാച്ച്ബാക്കിന്റെ ക്ലാസിലാണെന്നും മുകളിലുള്ള പോയിന്റുകൾ ക്ലാസ് എസ്യുവിയുടേതാണെന്നും ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ലോജിസ്പ്രെഡ് എന്നത് പ്രോബബിലിറ്റി മൂല്യങ്ങളുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് പ്രോബബിലിറ്റി മൂല്യങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ സ്നിപ്പറ്റ് ചുവടെയുണ്ട് ഇപ്പോൾ ആദ്യത്തെ നാല് പോയിന്റുകൾക്കും ബാക്കിയുള്ള പോയിന്റുകൾക്കും സമാനമായ മൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു ഇനി നമുക്ക് ഫലം നോക്കാം ത്രെഷോൾഡ് മൂല്യം സജ്ജീകരിച്ച് ടെസ്റ്റ് പോയിന്റ് ഹാച്ച്ബാക്ക് ആണോ എസ്യുവിയാണോ എന്ന് തരംതിരിക്കാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ 0 5 എന്ന ത്രെഷോൾഡ് മൂല്യം സെറ്റ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ ഡാറ്റാ ക്രാഷ്ടെസ്റ്റ് 1 ടെസ്റ്റിൽ നിന്ന് ഒരു കോളം കോൾ ലോജിസ്പ്രെഡ് സൃഷ്ടിക്കുകയും ലോഗ് സ്പീഡ് ആ പോയിന്റിനായി ഞങ്ങൾ കണക്കാക്കിയ മൂല്യമാണെങ്കിൽ അത് ലോഗ് സ്പീഡ് അല്ലെങ്കിൽ 0 5 ൽ കുറവാണെങ്കിൽ ഈ കോളത്തിന് കീഴിൽ ഹാച്ച്ബാക്ക് അസൈൻ ചെയ്യുമെന്നും വീണ്ടും ഇതേ ഡേറ്റയിൽ ലോജിസ്പ്രെഡ് 0 5 നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ കോളത്തിൽ എസ്യുവി അസൈൻ ചെയ്യുമെന്നും ഞാൻ പറയുന്നു നിങ്ങൾ അത് ചെയ്യുകയും കമാൻഡുകൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ അത് ഒരു കോളം സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ 7 ാമത്തെ കോളമായ അവസാന കോളത്തിൽ പ്രവചിച്ച മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നതും ഇവയിൽ ഓരോന്നിനും കീഴിലുള്ളതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് ഹാച്ച്ബാക്ക് ആണോ എസ്യുവിയാണോ എന്ന് എനിക്കറിയാം ഇപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം നമ്മുടെ ക്ലാസിഫയർ എത്ര കൃത്യമായി കാണാത്ത ഡാറ്റയെ തരംതിരിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുകയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മാട്രിക്സ് നോക്കാം അതിനാൽ ഫംഗ്ഷൻ ഒരു ക്യാപിറ്റൽ M ഉള്ള ഒരു കൺഫ്യൂഷൻ മാട്രിക്സാണ് ഇപ്പോൾ വീണ്ടും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഇതിനകം തന്നെ library caret ലോഡ് ചെയ്തിരിക്കണം ഇപ്പോൾ ഈ ഫംഗ്ഷനിലേക്കുള്ള എന്റെ ഇൻപുട്ട് ഒരു പട്ടികയാണ് അതിനാൽ എനിക്ക് ടേബിൾ കമാൻഡ് ഉണ്ട് ഇപ്പോൾ ടേബിൾ കമാൻഡിനുള്ളിൽ ഡാറ്റാ ക്രാഷ്ടെസ്റ്റ് 1 ടെസ്റ്റിൽ നിന്ന് കോളം 7 ലുള്ള എന്റെ പ്രവചിച്ച മൂല്യങ്ങൾ ഞാൻ നൽകുന്നു കൂടാതെ യഥാർത്ഥ ലേബലുകളാകുന്ന യഥാർത്ഥ മൂല്യങ്ങൾ ഞാൻ നൽകുന്നു പോസിറ്റീവ് എന്ന മറ്റൊരു പരാമീറ്ററും കൂടി ഉണ്ട് ഇപ്പോൾ ഡിഫോൾട്ടായി നിങ്ങൾ ഒരു ക്ലാസും പോസിറ്റീവ് ക്ലാസായി നൽകുന്നില്ലെങ്കിൽ കമാൻഡ് അത് നേരിടുന്ന ഫസ്റ്റ് ക്ലാസ് പോസിറ്റീവ് ക്ലാസായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരികെ പോയി പോസിറ്റീവ് പാരാമീറ്ററിന് കീഴിൽ അത് മാറ്റാവുന്നതാണ് ഇപ്പോൾ എനിക്ക് താഴെയുള്ള കൺഫ്യൂഷൻ മാട്രിക്സ് ഉണ്ട് അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ റഫറൻസ് ലേബലുകളും പ്രവചിച്ച ലേബലുകളുമുണ്ട് അതിനാൽ ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ഹാച്ച്ബാക്ക് എന്ന് പ്രവചിച്ച 10 കേസുകളുണ്ട് എന്നാണ് അത് 10 ഹാച്ച്ബാക്കുകളും ശരിയായി തിരിച്ചറിഞ്ഞു പക്ഷേ ഹാച്ച്ബാക്ക് ആയി പ്രവചിക്കപ്പെട്ടു എന്നാൽ യഥാർത്ഥത്തിൽ എസ്യുവി ഒന്നാണ് എസ്യുവിയായും യഥാർത്ഥ എസ്യുവിയായും പ്രവചിക്കപ്പെട്ടത് 9 ആണ് അതിനാൽ 10 എസ്യുവി കേസുകളിൽ 9 എണ്ണം അത് ശരിയായി തിരിച്ചറിയുകയും 1 തെറ്റായ ക്ലാസ്സിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ നിങ്ങൾ കൃത്യത മൂല്യം നോക്കിയാൽ അത് 0 95 ആണ് പ്രൊഫസർ രഘുവിന്റെ പെർഫോമിംങ്സ് മെഷർ അക്യൂറസി എന്ന ലെക്ച്ചർ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമെങ്കിൽ അക്യൂറസി എന്നത് ട്രൂ പോസിറ്റീവിനെയും ട്രൂ നെഗറ്റീവിനെയും കൂട്ടി അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനുമായി ഹരിച്ച കിട്ടുന്നതാണെന്ന് അറിയാമല്ലോ ഈ കേസിൽ അത് 20 ആണ് അതിനാൽ എനിക്ക് വീണ്ടും മുകളിൽ കമാൻഡ് ഉണ്ട് എനിക്ക് ഒന്നിന് തുല്യമായ സെൻസിറ്റിവിറ്റി മൂല്യമുണ്ട് ഇവിടെയുള്ള പോസിറ്റീവ് ലേബലുകൾ ഹാച്ച്ബാക്ക് ആണ് അവയെല്ലാം ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഒരു തെറ്റായ ക്ലാസ്സിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് അതിനാൽ ഈ സ്പെസിഫിസിറ്റി 0 9 ആയി കുറയുന്നു ബാലൻസ്ഡ് അക്യൂറസി എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഇപ്പോളുണ്ട് അത് 0 95 ആണ് ഇപ്പോൾ ബാലൻസ്ഡ് അക്യൂറസി എന്നത് സെൻസിറ്റിവിറ്റിയുടെയും സ്പെസിഫിസിറ്റിയുടെയും ശരാശരിയാണ് മറ്റെല്ലാ പെർഫോമൻസ് മെഷറുകളും പ്രൊഫസർ രഘു തന്റെ പെർഫോമൻസ് മെഷറുകളെക്കുറിച്ചുള്ള ലെക്ച്ചറിൽ വിശദീകരിച്ചിട്ടുണ്ട് മറ്റ് പെർഫോമൻസ് മെഷറുകളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരികെ പോയി അത് റഫർ ചെയ്യാം ഈ ലെക്ച്ചറിൽ നമ്മൾ ഓട്ടോമോട്ടീവ് ക്രാഷ് ടെസ്റ്റിംഗിന്റെ കേസ് സ്റ്റഡി പരിശോധിച്ചു ഡാറ്റ എങ്ങനെ വായിക്കാമെന്നും നമ്മൾ കണ്ടു അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമ്മൾ കണ്ടു ലോജിസ്റ്റിക് റിഗ്രഷനെ മാതൃകയാക്കാൻ നമ്മൾ glm ഫംഗ്ഷൻ ഉപയോഗിച്ചു കൂടാതെ ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ കൺഫ്യൂഷൻ മാട്രിക്സ് ഉപയോഗിക്കുന്നതെങ്ങനെയെന്നും നമ്മൾ നോക്കി